ഹലോ സെക്യുർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് കോഴ്സിലെ ഈ ക്ലാസിലേക്ക് സ്വാഗതം ഈ ക്ലാസിൽ micro architectural attacks എന്നറിയപ്പെടുന്ന ഒരു പുതിയ ആക്രമണ രീതിയെകുറിച്ചു നോക്കാം ഈ കോഴ്സിൽ സിസ്റ്റത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ വിവിധ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഉദാഹരണത്തിന് നമ്മൾ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ് നോക്കിയിരുന്നു എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഉപയോഗിച്ച് ഈ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ് യഥാർത്ഥത്തിൽ സിസ്റ്റത്തിന്റെ രഹസ്യാത്മകതയും സമഗ്രതയും നേടുന്നതിന് ഉപയോഗിക്കും സിസ്റ്റത്തിൽ വിവരങ്ങൾ എങ്ങനെ പ്രവഹിക്കുന്നത് നിയന്ത്രിക്കാൻ പാസ്വേഡുകളും information flow policy കളും ഉപയോഗിക്കാമെന്ന് നമ്മൾക്കറിയാം ആധുനിക പ്രോസസ്സറുകളിൽ നിലവിലുള്ള previleged rings ഇന്റൽ എആർഎം പ്രോസസറുകളിൽ യഥാക്രമം നിലവിലുള്ള എസ്ജിഎക്സ് ട്രസ്റ്റ്സോൺ എന്നിവ പോലുള്ള ഹാർഡ്വെയർ വശങ്ങൾ സിസ്റ്റത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഹാർഡ്വെയർ തലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നും നമ്മൾ കണ്ടു ഒരു സിസ്റ്റത്തിൽ ഒരു malicious പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനായി confinement പോലുള്ള വിവിധ സാങ്കേതിക വിദ്യകളും നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് ഈ confinement ഒരു സാൻഡ്ബോക്സ് സൃഷ്ടിക്കുകയും malicious പ്രോഗ്രാം സിസ്റ്റത്തിന്റെ ഒരു വശത്തെയും സ്വാധീനിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ആ സാൻഡ്ബോക്സിന് പുറത്ത് വെബ് ബ്രൌസറുകളും വെബ് സെർവറുകളും ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ഭാഷയായി ഉപയോഗിക്കുന്നുവെന്നും നമ്മൾ കണ്ടു കാരണം ജാവാസ്ക്രിപ്റ്റ് വളരെ നിയന്ത്രിതമായ ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ് അതിനാൽ ഒരു ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സിസ്റ്റത്തിലേക്കുള്ള പ്രവേശനം വളരെ പരിമിതമാണ് ഈ പ്രത്യേക ക്ലാസിൽ മൈക്രോ ആർക്കിടെക്ചറൽ attacks എന്നറിയപ്പെടുന്ന ഒരു പുതിയ attack രീതി പരിശോധിക്കും യഥാർത്ഥത്തിൽ മൈക്രോ ആർക്കിടെക്ചറൽ attack നെക്കുറിച്ചുള്ള രസകരമായ കാര്യം നമ്മൾ സംസാരിച്ചവയെല്ലാം തകർക്കാൻ ഇതിന് കഴിയും എന്നതാണ് ഉദാഹരണത്തിന് ക്രിപ്റ്റോഗ്രാഫിക് സ്കീമുകൾ തകർക്കാൻ മൈക്രോ ആർക്കിടെക്ചറൽ attcks ഉപയോഗിക്കുന്നു അവിടെ ക്രിപ്റ്റോ സ്കീമിന്റെ രഹസ്യ കീ മൈക്രോ ആർക്കിടെക്ചറൽ ആക്രമണത്തിലൂടെ വീണ്ടെടുക്കുന്നു അതുപോലെ പാസ്വേഡുകളും information flow policy കളായ ബെൽ ലാ പദുല മോഡലുകളും ഈ ആക്രമണങ്ങളാൽ തകർന്നു സമാനമായി previleged rings എൻക്ലേവുകൾ എഎസ്എൽആർ തുടങ്ങിയവയെല്ലാം തകർക്കാൻ മൈക്രോ ആർക്കിടെക്ചറൽ attacks നു കഴിഞ്ഞു മൈക്രോ ആർക്കിടെക്ചറൽ attacks അടിസ്ഥാനപരമായി വ്യത്യസ്ത തരം ആക്രമണങ്ങളുടെ ഒരു കൂട്ടമാണ് ഉദാഹരണത്തിന് ഇത് പ്രസിദ്ധമായ ചില മൈക്രോ ആർക്കിടെക്ചറൽ attack ന്റെ ലിസ്റ്റ് ആണ് കാഷെ ടൈമിംഗ് branch prediction Row hammer തരത്തിലുള്ള ആക്രമണങ്ങൾ എല്ലാം ആർക്കിടെക്ചറൽ attacks ആണ് ഈ പ്രത്യേക കോഴ്സിൽ ഞങ്ങൾ ആദ്യം കാഷെ ടൈമിംഗ് ആക്രമണങ്ങൾ നോക്കും കൂടാതെ speculation ആക്രമണങ്ങളെക്കുറിച്ചും ഒരു ചുരുക്കവിവരണം ഉണ്ടാകും ഈ നിർദ്ദിഷ്ട പ്രഭാഷണത്തിൽ information ഫ്ലോ പോളിസികളുമായി ബന്ധപ്പെട്ട് ഒരു മൈക്രോ ആർക്കിടെക്ചറൽ കാഷെ ടൈമിംഗ് ആക്രമണത്തിന് എന്ത് ചെയ്യാനാകുമെന്നതിനെക്കുറിച്ചുള്ള ഒരു ആമുഖം ഉണ്ടായിരിക്കും പ്രത്യേകിച്ചും ബെൽ ലാ പദുല ബിബ മോഡൽ പോലുള്ള വിവിധ വിവര ഫ്ലോ പോളിസികൾ മുമ്പത്തെ ക്ലാസിൽ യഥാർത്ഥത്തിൽ പഠിച്ചത് ഈ മോഡലുകൾക്ക് information flow എങ്ങനെ മാനിക്കാമെന്നതാണ് ഉദാഹരണത്തിന് ബെൽ ലാ പദുല മോഡലിൽ ഞങ്ങൾക്ക് ഉയർന്ന രഹസ്യം മുതൽ വ്യത്യസ്ത തലങ്ങളിലുള്ള രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു ബെൽ ലാ പദുല മോഡൽ നൽകിയ നിയമങ്ങൾ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് വിവരങ്ങൾ എങ്ങനെ എത്തിക്കണമെന്ന് തീരുമാനിച്ചു ഉദാഹരണത്തിന് unprevileged അല്ലെങ്കിൽ unclassified ഉപയോക്താക്കൾക്ക് ഒരു രഹസ്യ പ്രമാണം വായിക്കാൻ കഴിയില്ലെന്ന് ഈ മോഡൽ നിർവചിച്ചു ഞങ്ങൾ കാഷെ കോവർട്ട് ചാനലിൽ നിന്ന് ആരംഭിക്കുകയും വിവരങ്ങൾ തകർക്കാൻ ഈ രഹസ്യ ചാനൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണുകയും ചെയ്യും കാഷെ ടൈമിംഗ് ആക്രമണങ്ങൾ ഉപയോഗിച്ച് ബെൽ ലാ പദുല മോഡൽ പോലുള്ള സ്കീമുകൾ എങ്ങനെ തകർക്കാമെന്ന് ഞങ്ങൾ കാണും നമുക്ക് ഒരു cache covert channel നിന്നും ആരംഭിക്കാം cache covert channel എന്നതിലേക്ക് പോകുന്നതിനുമുമ്പ് ഒരു കാഷെ മെമ്മറി എന്താണെന്നും അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ഒരു ലഘു ആമുഖം നിങ്ങൾക്ക് ലഭിക്കും പ്രോസസ്സറിനും പ്രധാന മെമ്മറിയ്ക്കുമിടയിൽ കാഷെ മെമ്മറി ഇരിക്കുന്നു ഇത് അടുത്തിടെ ഉപയോഗിച്ച ഡാറ്റയും നിർദ്ദേശങ്ങളും കാഷെ ചെയ്യുന്നു അതിനാൽ കാഷെ മെമ്മറി ഉപയോഗിക്കുന്നതിനുള്ള കാരണം പ്രധാന മെമ്മറിയിൽ നിന്ന് ലോഡുകളും സ്റ്റോറുകളും വളരെ മന്ദഗതിയിലാണ് എന്നതാണ് അതിനാൽ പ്രധാന മെമ്മറിയേക്കാൾ വളരെ വേഗതയിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന കാഷെ മെമ്മറിക്ക് വളരെ വേഗത്തിൽ load store നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനും പ്രോസസ്സറിൽ നിന്നുള്ള അഭ്യർത്ഥനകൾ സംഭരിക്കാനും കഴിയും ഉദാഹരണത്തിന് രജിസ്റ്റർ r0 ലേക്ക് ലോഡ് ചെയ്യാൻ ഒരു load instruction ഉണ്ടെന്നു കരുതുക ഈ നിർദ്ദേശം ആദ്യമായി നടപ്പിലാക്കുന്നുവെന്ന് കരുതുക പ്രധാന മെമ്മറിയിലുള്ള ആ വിലാസവുമായി ബന്ധപ്പെട്ട ഡാറ്റ പ്രോസസറിലേക്ക് ലോഡുചെയ്യുന്നു എന്നതാണ് ഇവിടെ സംഭവിക്കുക ഈ ഡാറ്റയും ഈ വിലാസത്തോട് ചേർന്നുള്ള ഡാറ്റയും കാഷെ മെമ്മറിയിൽ സംഭരിക്കുന്നു അതേ വിലാസത്തിലോ അല്ലെങ്കിൽ ഈ പ്രത്യേക വിലാസത്തിന് വളരെ അടുത്തുള്ള വിലാസത്തിലേക്കോ പോകുന്ന തുടർന്നുള്ള ലോഡ് നിർദ്ദേശങ്ങൾ കാഷെയിൽ നിന്ന് നേരിട്ട് ലഭ്യമാക്കാൻ പ്രോസസർ നു കഴിയും കാഷെ മെമ്മറിയിൽ നിന്ന് ഇത് വളരെ വേഗത്തിൽ ലഭ്യമാകും ഞങ്ങൾ ഇതിനെ ഒരു കാഷെ ഹിറ്റ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഇവിടെ പ്രശ്നം ഉയർന്നുവരുന്നു കാഷെ മെമ്മറി പ്രധാന മെമ്മറിയേക്കാൾ വളരെ ചെറുതായതിനാൽ ഒരു സാധാരണ എൽ 1 കാഷെ 32 കിലോബൈറ്റാണ് പ്രധാന മെമ്മറി നിരവധി മെഗാബൈറ്റുകൾ വരെ വലുതായിരിക്കും അതിനാൽ കാഷെ മെമ്മറി പ്രധാന മെമ്മറിയുടെ ഒരു ചെറിയ subset സംഭരിക്കുന്നു കൂടാതെ കാഷെയിൽ നിന്നുള്ള ഡാറ്റ നീക്കംചെയ്യുകയും പകരം അടുത്തിടെ ആക്സസ്സുചെയ്യുന്ന മെമ്മറിയിൽ നിന്നുള്ള പുതിയ ഡാറ്റ കാഷെ മെമ്മറിയിൽ സംഭരിക്കുകയും ചെയ്യുന്ന ഒരു replacement policy ഉണ്ട് അതിനാൽ ഈ പ്രോസസ്സർ നടപ്പിലാക്കുന്ന എല്ലാ ലോഡ് നിർദ്ദേശങ്ങളോടും കൂടി നമുക്ക് ഒരു കാഷെ ഹിറ്റ് ഉണ്ടാകാം അത് ഡാറ്റ കാഷെ മെമ്മറിയിൽ ഉണ്ടെന്നും ഡാറ്റ കാഷെ മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിലേക്ക് നേരിട്ട് വായിക്കാമെന്നും സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ കാഷെ മെമ്മറിയിൽ ഡാറ്റ ഇല്ലാത്തതിനാൽ ഞങ്ങൾക്ക് ഒരു കാഷെ മിസ് ആകാം അതിനാൽ പ്രധാന മെമ്മറിയിൽ നിന്ന് അത് നേടേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ നിർണായകമായ രണ്ട് വശങ്ങളുണ്ട് ആദ്യത്തേതു കാഷെ മെമ്മറി സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന വിവിധങ്ങളായ പ്രക്രിയകളാൽ പങ്കിടുന്നു രണ്ടാമതായി കാഷെ മെമ്മറി പ്രധാന മെമ്മറിയേക്കാൾ വളരെ ചെറുതാണ് എന്നിവയാണ് ഇവിടെ eviction എന്ന ഒന്നുണ്ട് അതിൽ കാഷെയിലുള്ള ഡാറ്റ evict ചെയ്യുകയും അടുത്തിടെ ആക്സസ് ചെയ്ത ഒരു പുതിയ ഡാറ്റ കാഷെ മെമ്മറിയിൽ സൂക്ഷിക്കുന്നു ഇതിന്റെ ഫലമായി ഞങ്ങൾക്ക് കാഷെ ഹിറ്റുകൾ കാഷെ മിസ്സുകൾ എന്നിവ ലഭിക്കുന്നു അതിനാൽ ഒരു കാഷെ ഹിറ്റ് കാഷെ മിസ്സിനേക്കാൾ വളരെ വേഗതയുള്ളതാണ് കാരണം കാഷെ ഹിറ്റ് കാഷെ മെമ്മറിയിൽ നിന്ന് നേരിട്ട് ഡാറ്റ നേടുന്നു അതേസമയം ഒരു കാഷെ മിസ് പ്രധാന മെമ്മറിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോവർ കാഷെയിൽ നിന്നോ ഡാറ്റ ലഭ്യമാക്കേണ്ടതുണ്ട് ഇപ്പോൾ കാഷെ മെമ്മറിയെക്കുറിച്ച് കൂടുതൽ ആന്തരിക ഓർഗനൈസേഷൻ നോക്കേണ്ടതുണ്ട് ഒരു സാധാരണ കാഷെ മെമ്മറി നിരവധി കാഷെ സെറ്റുകളായി ക്രമീകരിച്ചിരിക്കുന്നു ഇവിടെ കാണുന്നതുപോലെ ഓരോ കാഷെ സെറ്റും ഓരോ വരിയും ഒരു കാഷെ സെറ്റിന് സമാനമാണ് ഓരോ കാഷെ സെറ്റിനും ഒന്നിലധികം കാഷെ ലൈനുകൾ ഉണ്ടാവാം ഈ ബ്ലോക്കുകളിൽ ഓരോന്നും ഒരു കാഷെ ലൈനാണ് ഒരു ഇന്റൽ പ്രോസസറിലെ സാധാരണ കാഷെ ലൈൻ വലുപ്പം ഏകദേശം 64 ബൈറ്റുകളാണ് ഇവിടെയുള്ള ഈ പ്രത്യേക ഡയഗ്രം ഒരു കാഷെ സെറ്റിൽ 4 കാഷെ ലൈനുകൾ ഉണ്ടെന്ന് കാണിക്കുന്നു അതിനാൽ ഈ പ്രത്യേക കാഷെയുടെ associativity നാല് ആണ് പ്രോസസ്സർ ഒരു ലോഡ് അല്ലെങ്കിൽ സ്റ്റോർ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമ്പോഴെല്ലാം അത് address bus ൽ ഒരു address വയ്ക്കുന്നു ഇത് ഒരു എൽ 1 കാഷെ ആകാം ഇത് ഒരു വെർച്വൽ വിലാസമായിരിക്കും കൂടാതെ L1 കാഷെ മെമ്മറി ഈ വിർച്വൽ വിലാസത്തെ ഈ പ്രത്യേക രീതിയിൽ വ്യാഖ്യാനിക്കുന്നു ഒരു കാഷെ ലൈനിനെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ കുറച്ച് ബിറ്റുകൾ ഉണ്ട് ഈ പ്രത്യേക കാഷെ ലൈനിൽ നിന്ന് കാഷെ സെറ്റുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്ന സെറ്റ് അഡ്രസ് ബിറ്റുകൾ എന്നറിയപ്പെടുന്ന ബിറ്റുകൾ ഉണ്ട് അതുപോലെ ടാഗ് ബിറ്റുകൾ ഉണ്ട് അതിനാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ പ്രോസസ്സർ ഓരോ തവണയും address ബസ്സിൽ address ഇടുകയാണെങ്കിൽ ഈ ശ്രേണിയിലുള്ള സെറ്റ് വിലാസ ബിറ്റുകൾ ഈ കാഷെ സെറ്റുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുന്നു ഈ വിലാസവുമായി ബന്ധപ്പെട്ട ഡാറ്റ ഈ സെറ്റിൽ ഉണ്ടോ എന്ന് നിർണ്ണയിക്കാൻ ഇവിടെ address ലെ ടാഗ് ബിറ്റുകൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽഅത് ഒരു കാഷെ ഹിറ്റ് എന്ന് അറിയപ്പെടുന്നു ഒപ്പം ആ വിലാസവുമായി ബന്ധപ്പെട്ട ഡാറ്റ ആ അനുബന്ധ കാഷെ ലൈനിൽ നിന്ന് ലഭിക്കും മറുവശത്ത് ആ സെറ്റിന് അനുയോജ്യമായ ഈ കാഷെ ലൈനുകളിലൊന്നും ആ ടാഗ് കണ്ടെത്തിയില്ലെങ്കിൽ ഒരു കാഷെ മിസ് ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നു മെമ്മറിയുടെ അടുത്ത നിലകളായ DRAM അല്ലെങ്കിൽ കാഷെയുടെ അടുത്ത നിലകളായ എൽ 2 അല്ലെങ്കിൽ എൽ 3 കാഷെ പോലുള്ള പ്രത്യേക ലോഡ് അഭ്യർത്ഥനയ്ക്ക് സേവനം നൽകുന്നതിന് ആവശ്യമാണ് ഇപ്പോൾ ഇതുപോലുള്ള ഒരു പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുമ്പോൾ എന്തുസംഭവിക്കുമെന്ന് നോക്കാം നമുക്ക് ഒരു പ്രോസസ്സ് പി 2 ഉണ്ടെന്നും ഈ പ്രോസസ്സ് പി 2 ഒന്നിലധികം ലോഡ് നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും കരുതുക അതിനാൽ നമുക്ക് ലോഡ് A1 A2 A3 A4 കൂടാതെ ലോഡ് B1 B2 B3 B4 എന്നിങ്ങനെ ആകെ എട്ട് ലോഡ് നിർദ്ദേശങ്ങൾ ഉണ്ട് എ 1 എ 2 എ 3 എ 4 എന്നീ വിലാസങ്ങളുമായി പൊരുത്തപ്പെടുന്ന സെറ്റ് address ബിറ്റുകൾ എ സെറ്റ് എന്നറിയപ്പെടുന്നു ലൂപ്പിന്റെ ആദ്യ ആവർത്തനം ചെയ്യുമ്പോൾ A1 വിലാസവുമായി ബന്ധപ്പെട്ട ഡാറ്റ A സെറ്റിൽ നിലവിലുള്ള ഈ കാഷെ ലൈനുകളിലൊന്നിൽ ലോഡുചെയ്യുന്നു അതുപോലെ തന്നെ ലോഡ് എ 2 ലോഡ് എ 3 ലോഡ് എ 4 എന്നിവയുടെ ആദ്യ എക്സിക്യൂഷൻ ഡാറ്റ എടുക്കുകയും ഈ A സെറ്റിൽ സൂക്ഷിക്കുകയും ചെയ്യും ആദ്യത്തെ എക്സിക്യൂഷൻ എല്ലാം കാഷെ മിസ്സുകളായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു നാല് ലോഡ് നിർദ്ദേശങ്ങൾ ലോഡ് ബി 1 ബി 2 ബി 3 ബി 4 എന്നിവ ഈ ബി സെറ്റിലേക്ക് മാപ്പുചെയ്യുന്നു ലൂപ്പിന്റെ ആദ്യ ആവർത്തനത്തിന്റെ അവസാനത്തിൽ ബി സെറ്റിലെ എല്ലാ 4 കാഷെ ലൈനുകളിലും ഇതുമായി ബന്ധപ്പെട്ട data ഉണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ നിർണായക മായ ഒരു കാര്യം ഈ പ്രത്യേക സമയത്തെ ലൂപ്പിന്റെ സമയമാണ് ആദ്യ ആവർത്തന സമയത്ത് നിങ്ങൾക്ക് എ ബി എന്നിവയ്ക്കുള്ള എല്ലാ കാഷെ മിസ്സുകളും ലഭിക്കുമെന്ന് ഓർക്കുക അതിനാൽ ഈ 8 ലോഡ് നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഈ ആദ്യത്തെ ആവർത്തനത്തിനായി ആകെ 8 കാഷെ മിസ്സുകൾ ഉണ്ടാകും രണ്ടാമത്തെ ആവർത്തനം മുതൽ സിസ്റ്റത്തിൽ മറ്റൊരു പ്രക്രിയയും നടക്കുന്നില്ലെന്ന് അനുമാനിക്കാം ഈ ലോഡ് പ്രവർത്തനങ്ങളെല്ലാം കാഷെ ഹിറ്റുകളിൽ കലാശിക്കും കാരണം A1 A2 A3 അല്ലെങ്കിൽ A4 ലേക്ക് തുടർന്നുള്ള ഓരോ ലോഡും A സെറ്റിലെ നിലവിലുള്ള കാഷെ ലൈനിൽ നിന്നുള്ള ഡാറ്റ നേരിട്ട് ലഭിക്കും അതുപോലെ തന്നെ ബി 1 ബി 2 ബി 3 അല്ലെങ്കിൽ ബി 4 ലേക്കുള്ള ഓരോ ലോഡും ഈ ബി സെറ്റിൽ നിന്നുള്ള ഡാറ്റ നേരിട്ട് ലഭിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്ന രണ്ടാമത്തെ കാര്യം ഈ ലോഡുകൾക്കും ഈ ലോഡുകൾക്കും എതിരായ സമയം ഏകദേശം തുല്യമാണ് എന്നതാണ് ഞങ്ങൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കലി എന്ന പദം ഉപയോഗിക്കുന്നു അതായത് ഈ പ്രത്യേക ലൂപ്പ് ആയിരക്കണക്കിന് തവണ പ്രവർത്തിക്കുന്നുവെന്നും ഈ നാല് ലോഡുകൾക്കും ഈ നാല് ലോഡുകൾക്കും എടുത്ത സമയവും സ്റ്റാറ്റിസ്റ്റിക്കലി ശരിയാണെന്നും അർത്ഥമാക്കുന്നു ഉദാഹരണത്തിന് ശരാശരി വ്യതിയാനം മുതലായവ മറ്റൊരു പ്രക്രിയ P1 ഇവിടെ പരിഗണിക്കുക പ്രോസസ്സ് പി 1 ന് ഇതുപോലെ ഉള്ള ഒരു ചെറിയ loop ഉണ്ട് ഈ പ്രത്യേക ലൂപ്പിൽ ഞങ്ങൾക്ക് ഒരു ബിറ്റ് ഉണ്ട് ബിറ്റ് 1 ന് തുല്യമാണെങ്കിൽ നിങ്ങൾ Ap1 ലോഡ് ചെയ്യുക അല്ലെങ്കിൽ Bp1 ലോഡ് ചെയ്യുക അതായത് ബിറ്റ് 1 ന് തുല്യമാണെങ്കിൽ A ക്കു തുല്യമായി P1 ന്റെ address space ൽ ഉള്ള ഡാറ്റ ലോഡ് ചെയ്യുക സമാനമായി ഇവിടെ B ക്കു തുല്യമായി P1 ന്റെ address space ൽ ഉള്ള ഡാറ്റ ലോഡുചെയ്യുന്നു പ്രോസസ് P2 ഉം പ്രോസസ് P1 ഉം പരസ്പരം തികച്ചും സ്വതന്ത്രമാണ് അതിനാൽ നമ്മൾ പഠിച്ച ബെൽ ലാ പാദുല മോഡലുമായി ഇത് ബന്ധപ്പെടുത്തുമ്പോൾ പ്രോസസ്സ് പി 1 ഒരു top secret പ്രക്രിയയായിരിക്കാം അതുപോലെ പ്രോസസ്സ് പി 2 unclassified പ്രക്രിയയായിരിക്കാം ഈ പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് ഞങ്ങൾക്ക് P1 പ്രോസസ്സിൽ നിന്ന് P2 ലേക്ക് ഒരു ബിറ്റ് കൈമാറാൻ കഴിയുമെന്നത് ശ്രദ്ധിക്കുക പ്രോസസ്സ് P ഒരു 0 ബിറ്റ് transmit ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ ബിറ്റ് 0 ആയി സജ്ജമാക്കുക തുടർന്ന് ഈ പ്രത്യേക സ്ഥാനത്തേക്ക് ഒരു ലോഡ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും ഇപ്പോൾ P1 പ്രോസസ്സിലെ പ്രത്യേക address space ൽ ഉള്ള address യഥാക്രമം A സെറ്റിലും B സെറ്റിലും വരുന്ന തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു ഉദാഹരണത്തിന് പ്രോസസ്സ് P1 പ്രോസസ്സ് P2 ലേക്ക് ഒരു 1 transmit ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബിറ്റ് 1 ആയി സെറ്റ് ചെയ്യുക തുടർന്ന് load Ap1 എന്ന നിർദ്ദേശം നടപ്പിലാക്കുക ഇപ്പോൾ സംഭവിക്കുന്നത് main മെമ്മറി access ചെയ്യപ്പെടുകയും അവിടെ ഒരു കാഷെ മിസ് ഉണ്ടാവുകയും ചെയ്യും കൂടാതെ ഒരു കാഷെ ലൈൻ പ്രധാന മെമ്മറിയിൽ നിന്ന് ഈ A സെറ്റിലേക്ക് ലോഡുചെയ്യുന്നു അതിനാൽ പ്രോസസ് പി 2 ഡാറ്റ നീക്കംചെയ്യുകയും പ്രോസസ് പി 1 ഡാറ്റ ആ അനുബന്ധ കാഷെ ലൈനിൽ പൂരിപ്പിക്കുകയും ചെയ്യും ഈ 2 സെറ്റ് ലോഡുകളുടെ എക്സിക്യൂഷൻ സമയത്തെ സ്ഥിതിവിവരക്കണക്കിലൂടെ നോക്കിയാൽ ഈ A ലോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് എടുത്ത സമയമാണ് B ലോഡുകൾക്ക് എടുക്കുന്ന സമയത്തേക്കാൾ വലുത് കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് പ്രോസസ് P1 ഡാറ്റ ഇവിടെയുണ്ട് തദ്ഫലമായി ഈ load A1A2A3A4 എന്നിവ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചില അധിക കാഷെ മിസ്സുകൾ ഉണ്ടാകും അത് ഈ ഭാഗത്തിന്റെ എക്സിക്യൂഷൻ സമയം വർദ്ധിപ്പിക്കും മറുവശത്ത് B1B2B3 അല്ലെങ്കിൽ B ലേക്കുള്ള ലോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാഷെ ഹിറ്റുകൾ ലഭിക്കും അതിനാൽ എടുക്കുന്ന സമയം ഗണ്യമായി കുറവായിരിക്കും ഒരു 1 transmit ചെയ്യുന്നതിന് ഒരു top secret പ്രക്രിയയായ പ്രോസസ് P1 ബിറ്റിന് 1 ആയി സജ്ജമാക്കുകയും അത് A സെറ്റിൽ നിന്ന് ഒരു പ്രത്യേക കാഷെ ലൈൻ ഒഴിവാക്കുന്നു അതിന്റെ ഫലമായി P2 പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ സമയത്തെ സ്വാധീനിക്കുകയും ചെയ്യും അതിനാൽ മറ്റ് ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ P2 പ്രക്രിയയുടെ execution സമയം കൂടുതലായിരിക്കും സമാനമായ രീതിയിൽ P1 പ്രോസസ്സ് P2 പ്രോസസ്സ് ലേക്ക് ഒരു 0 കൈമാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ബിറ്റ് 0 ക്കു തുല്യമായി സജ്ജമാക്കും അങ്ങനെ ലോഡ് P1 എക്സിക്യൂട്ട് ചെയ്യപ്പെടും ഇപ്പോൾ Bp1 B സെറ്റിലേക്ക് മാപ്പ് ചെയ്യപ്പെടും അതിനാൽ ഇത് P2 ന്റെ നിലവിലുള്ള ഡാറ്റ നീക്കംചെയ്യുകയും P2 ലൂപ്പ് അനന്തമായി തുടരുകയും ചെയ്യുന്നു A1 A2 A3 A4 എന്നിവ ലോഡുചെയ്യാൻ എടുക്കുന്ന കുറഞ്ഞ സമയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ B1 B2 B3 B4 എന്നിവയുടെ ലോഡുകൾക്കായി എടുക്കുന്ന സമയം കൂടുതലാണ് സെറ്റ് B യിൽ അടങ്ങിയിരിക്കുന്ന അധിക കാഷെ മിസ് കാരണം ആണ് ഇത് സംഭവിക്കുന്നത് ഈ രീതിയിൽ പ്രോസസ്സ് P1 നു P2 ലേക്ക് ബിറ്റുകൾ കൈമാറാൻ കഴിയും ഏത് വിലാസത്തിൽ നിന്ന് ലോഡ് ചെയ്യണമെന്ന് തീരുമാനിക്കാം ഒന്നുകിൽ A വിലാസത്തിൽ നിന്ന് ലോഡുചെയ്യുകയോ B വിലാസത്തിൽ നിന്ന് ലോഡ് ചെയ്യുകയോ ചെയ്യാം നമ്മൾ ഈ പ്രത്യേക ആശയം വിപുലീകരിക്കുകയാണെങ്കിൽ ഒരു പ്രക്രിയ P1 എങ്ങനെ പ്രോസസ്സ് P2 ലേക്ക് ഒരു വലിയ സന്ദേശം അയയ്ക്കുമെന്നും P1 പ്രോസസ്സിനായുള്ള കോഡ് ഇതുപോലൊന്ന് ആയിരിക്കുമെന്നും നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് പ്രോസസ്സ് P1 ഒരു സന്ദേശം അയയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വിചാരിക്കുക ഇതിന് ഒരു while ലൂപ്പ് ഉണ്ടാകും ആ സന്ദേശത്തിലെ ഓരോ ബിറ്റിനും അത് A ലൊക്കേഷനിൽ നിന്നോ B ലൊക്കേഷനിൽ നിന്നോ ലോഡുചെയ്യാൻ കഴിയും അതിനാൽ ഹാർഡ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പ്രോസസ്സ് 1 നും പ്രോസസ്സ് 2 നും ഇടയിൽ വലിയ അളവിൽ സംരക്ഷണം നൽകുന്നുണ്ടെങ്കിലും ഇത് സാധ്യമാണെന്ന് ഞങ്ങൾ കാണുന്നു പ്രോസസ്സറിൽ നിലവിലുള്ള shared കാഷെ മെമ്മറി കാരണം ഒരു പ്രോസസിന് മറ്റൊരു പ്രക്രിയയിലേക്ക് വിവരങ്ങൾ കൈമാറാൻ കഴിയും എന്നിരുന്നാലും ഇവിടെ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് പ്രോസസ് P1 നും പ്രോസസ് P2 നും പരസ്പരം കൈമാറുന്ന ബിറ്റ് ഫോർമാറ്റിനെക്കുറിച്ച് ഒരു agreement ഉണ്ട് ഉദാഹരണത്തിന് ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന സെറ്റുകളെ അവർ അംഗീകരിക്കുകയും രണ്ട് പ്രക്രിയകൾക്കിടയിൽ ആശയവിനിമയം നടത്തുന്നതിന് ഒരു പ്രത്യേക പ്രോട്ടോക്കോൾ അംഗീകരിക്കുകയും വേണം കാഷെ കോവർട്ട് ചാനലുകൾ ഒരു വലിയ പ്രശ്നമാണ് അത്തരം പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കോവർട്ട് ചാനലുകൾ ഒരു വലിയ പ്രശ്നമാണ് കാഷെ കോവർട്ട് ചാനലുകൾ ഒരു ഉദാഹരണം മാത്രമാണ് ഇതിനുപുറമെ മറ്റ് പലതരം കോവർട്ട് ചാനലുകളും ഉണ്ടാകാം അതിനാൽ സിസ്റ്റത്തിൽ നിലവിലുള്ള എല്ലാ രഹസ്യ ചാനലുകളും തിരിച്ചറിയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം ആശയവിനിമയ നിരക്ക് അല്ലെങ്കിൽ ആ രഹസ്യ ചാനലിനെ കണക്കാക്കുക എന്നതാണ് ആ പ്രത്യേക രഹസ്യ ചാനലിലൂടെ ഡാറ്റ ആശയവിനിമയം നടത്താൻ കഴിയുന്ന നിരക്ക് അളക്കുക എന്നതാണ് ഇവിടെ നമ്മൾക്ക് പ്രധാനം ഉദാഹരണത്തിന് ഈ പ്രത്യേക സ്ലൈഡിലേക്ക് നോക്കുക ആണെങ്കിൽ ഒരു ചാനലിന്റെ ആശയവിനിമയ നിരക്ക് പ്രോസസ്സ് ഒന്നിൽ നിന്ന് പ്രോസസ്സ് രണ്ടിലേക്ക് സെക്കൻഡിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ബിറ്റുകളുടെ എണ്ണമായിരിക്കും അതിനാൽ ഇത് സാധാരണയായി വളരെ കുറവാണ് സെക്കൻഡിൽ ഒന്നോ രണ്ടോ ബിറ്റുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ വളരെ നല്ല കാഷെ രഹസ്യ ചാനലായിരിക്കും രൂപകൽപ്പനയിലെ അത്തരം രഹസ്യ ചാനലുകൾ ഇല്ലാതാക്കുന്നതിന് സിസ്റ്റം വളരെ ശ്രദ്ധാപൂർവ്വം രൂപകൽപ്പന ചെയ്യാനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം തലത്തിൽ മാത്രമല്ല ഹാർഡ്വെയർ തലത്തിലും പ്രക്രിയകൾക്കിടയിൽ ശരിയായ വേർതിരിവ് ഉണ്ടെന്ന് ഉറപ്പാക്കാനും ഒരാൾക്ക് കഴിയണം ഉദാഹരണത്തിന് കാഷെ കോവർട്ട് ചാനൽ തടയുന്നതിന് ഒരു സമയത്തും പ്രോസസ്സ് P1 പ്രോസസ് P2 എന്നിവ ഒരേ കാഷെ മെമ്മറി പങ്കിടുന്നില്ലെന്ന് ഉറപ്പാക്കണം തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ മറ്റ് തരത്തിലുള്ള കാഷെ ടൈമിംഗ് ആക്രമണങ്ങൾ പരിശോധിക്കും അതിൽ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം പോലുള്ള അൽഗോരിതങ്ങൾ തകർക്കാനും ആ ക്രിപ്റ്റോ ഗ്രാഫിക് അൽഗോരിതത്തിൽ നിന്നുള്ള മെമ്മറി ആക്സസ് സമയം അളക്കുന്നതിലൂടെ രഹസ്യ കീകൾ മോഷ്ടിക്കാനുമാകും നന്ദി